എന്റെ പക്കലുള്ള ചിത്രം വീണ്ടും വരയ്ക്കാം ഒപ്പം ഗ്രൌണ്ടുമായി മാത്രം ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ലോഡ് കാണിക്കാൻ അനുവദിക്കുക ഇപ്പോൾ ബയസ് ചിത്രത്തിൽ ഗേറ്റ് VG0 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഡ്രെയിൻ VDD യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു പൊതുവേ ഇത് സാച്ചുറേഷൻ മേഖലയിൽ നിലനിൽക്കുന്ന ചില ഘട്ടങ്ങളുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ dc ബയാസിംഗിനായുള്ള dc ക്ക് വേണ്ടിയുള്ള VDD യുമായി ഇത് ബന്ധിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയാം പക്ഷേ VDD യിൽ നിന്ന് വിച്ഛേദിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സിഗ്നൽ ഫ്രീക്വൻസികൾക്കുപോലും ഇത് VDD യുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെയിൻ കറന്റ് ഗ്രൌണ്ടിലേക്ക് സ്മാൾ സിഗ്നൽ ഗ്രൌണ്ടിലേക്ക് പോകുന്നു അതിനാൽ ഇത് ac അല്ലെങ്കിൽ ഉയർന്ന ആവൃത്തികൾക്കുള്ള ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഇവിടെ കണക്റ്റുചെയ്യുന്നതെന്തും dc യ്ക്കുള്ള ഒരു ഷോർട്ട് സർക്യൂട്ടും ac യ്ക്കായി ഓപ്പൺ സർക്യൂട്ടും ആയിരിക്കണം അത്തരമൊരു മൂലകം എന്താണ് വ്യക്തമായ തിരഞ്ഞെടുപ്പ് ഇൻഡക്റ്ററാണ് ഞാൻ അതിനെ L2 എന്ന് വിളിക്കും ഈ ഡ്രെയിൻ ac ക്ക് മാത്രമായി ലോഡിലേക്ക് കണക്റ്റുചെയ്യണം അത് dc ക്ക് കണക്റ്റുചെയ്യരുത് അതിനാൽ നമുക്ക് dc ക്ക് ഓപ്പൺ സർക്യൂട്ട് ആവശ്യമാണ് അതിനാൽ നമ്മൾ പരിചിതമായ കപ്ലിംഗ് കപ്പാസിറ്റർ C2 ഉപയോഗിക്കുന്നു ഇപ്പോൾ നമ്മൾ L2 C2 എന്നിവയുടെ മൂല്യങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി വിലയിരുത്താൻ കഴിയും പക്ഷേ ഞാൻ ഒരു എളുപ്പമാർഗ്ഗം എടുക്കുകയും ഘട്ടം ഘട്ടമായി അത് ചെയ്യുകയും ചെയ്യും ഇതിന്റെ സ്മാൾ സിഗ്നൽ ചിത്രം വരയ്ക്കാം അത് വരയ്ക്കുമ്പോൾ ഈ C1 C3 എന്നിവ ഇതിനകം ഷോർട്ട് ആണെന്ന് ഞാൻ അനുമാനിക്കും L2 C2 എന്നിവയുടെ മൂല്യങ്ങൾ കണ്ടെത്തുക മാത്രമാണ് നമ്മളുടെ താൽപ്പര്യം ഡ്രെയിനിനും സ്മാൾ സിഗ്നൽ ഗ്രൌണ്ടിനും ഇടയിൽ നമ്മൾക്ക് L2 ഉണ്ട് അതിനും ലോഡിനുമിടയിൽ നമ്മൾക്ക് C2 ഉണ്ട് തുടർന്ന് നമ്മൾക്ക് ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ ആദ്യം ഞാൻ C2 ശരിയായി തിരഞ്ഞെടുത്തുവെന്ന് കരുതുന്നു അങ്ങനെ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ് C2 ഒരു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് ഞാൻ ഊഹിക്കുകയാണെങ്കിൽ L2 എങ്ങനെ വിലയിരുത്താം അടിസ്ഥാനപരമായി എന്റെ ഔട്ട്പുട്ട് കറന്റ് ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിലൂടെ ഒഴുകുന്ന ഈ io ആണ് ഇതെല്ലാം ലോഡിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ I0 ലോഡിലൂടെ കടന്നുപോകരുത് അത് L2 ലേക്ക് പോകരുത് C2 ഷോർട്ട് ആണെന്ന് കരുതുന്നുവെങ്കിൽ L2 RL എന്നിവ സമാന്തരമാണ് അതിനാൽ നിങ്ങൾ എങ്ങനെ എല്ലാ io അല്ലെങ്കിൽ മിക്ക io യും RL ലേക്ക് പോകുന്ന രീതിയിൽ ആക്കുന്നു സിഗ്നൽ ആവൃത്തിയിലുള്ള L2 ന്റെ റിയാക്ടൻസ് RL നെക്കാൾ ഉയർന്നതായിരിക്കണം മിക്കവാറും എല്ലാ io ഉം RL ലേക്ക് ഒഴുകുന്നു L2 ഇവിടെ ഒമേഗ സിഗ്നൽ ആവൃത്തിയാണെങ്കിൽ 𝜔L2 തീർച്ചയായും റിയാക്ടൻസ് RL നേക്കാൾ കൂടുതലാണ് അതിനാൽ നമുക്ക് സമാന്തരമായി ഇംപെഡൻസുകളുടെ സംയോജനമുണ്ട് ഒരു ഇംപെഡൻസ് മറ്റൊന്നിനേക്കാൾ വളരെ ഉയർന്നതാണ് അതിനാൽ എല്ലാ io ഉം RL ലേക്ക് പോകും അങ്ങനെയാണ് നിങ്ങൾ L2 തിരഞ്ഞെടുക്കേണ്ടത് L2 കൂടാതെ അവിടെ കുറഞ്ഞ വലുപ്പ പരിമിതിയും ഉണ്ട് L2 RLനേക്കാൾ വളരെ കൂടുതലാണ് C2 ലെ നിയന്ത്രണം എങ്ങനെ വിലയിരുത്താമെന്ന് ഇപ്പോൾ നോക്കാം സിഗ്നൽ ആവൃത്തികളിലെ C2 ന്റെ റിയാക്ടൻസ് അടിസ്ഥാനപരമായി 1C2 ആണ് ഇത് അതിൽ ഉടനീളം ദൃശ്യമാകുന്ന ഇംപെഡൻസിനേക്കാൾ വളരെ ചെറുതായിരിക്കണം C2 ൽ ഉടനീളം ദൃശ്യമാകുന്ന ഇംപെഡൻസിന്റെ വ്യാപ്തി നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു ഇത് നമ്മൾക്ക് പരിചിതമായ ഒന്നാണ് നമ്മൾ നേരത്തെ കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ വിലയിരുത്തി C2 ഷോർട്ട് സർക്യൂട്ട് ആണെന്നും C2 ഉൾപ്പെടെയുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനും നമ്മൾ അനുമാനിക്കുകയാണെങ്കിൽ C2 ന്റെ റിയാക്ടൻസ് അതിലെ റെസിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ ഈ അവസ്ഥ തൃപ്തിപ്പെടുമെന്നും നിങ്ങൾക്ക് അതേ ഔട്ട്പുട്ട് വോൾട്ടേജ് ലഭിക്കുമെന്നും നമ്മൾ കണ്ടെത്തി തീർച്ചയായും അതേ ഔട്ട്പുട്ട് കറന്റ് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് C2 ആണ് നമ്മൾ അത് ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഈ സാഹചര്യത്തിൽ ഞാൻ അതിനെ ഇംപെഡൻസായി സാമാന്യവൽക്കരിക്കുന്നു കാരണം C2 ൽ ഉടനീളം നിങ്ങൾക്ക് L2 ഉം റെസിസ്റ്റൻസ് RL ഉണ്ട് ഇപ്പോൾ ഈ ഭാഗമെല്ലാം സർക്യൂട്ട് ഡ്രോപ്പ് ആണ് ഞാൻ vi പൂജ്യമായി സജ്ജമാക്കുകയാണെങ്കിൽ ഞാൻ vi നിർജ്ജീവമാക്കുകയാണെങ്കിൽ ഈ വോൾട്ടേജ് പൂജ്യമാവുകയും ആ വോൾട്ടേജ് പൂജ്യമാവുകയും ചെയ്യും അതിനാൽ gmvgs പൂജ്യമാകും അതിനാൽ ഇത് ഇല്ലാതാകുകയും അവശേഷിക്കുന്നത് ഇത് മാത്രമാണ് ഈ അവസ്ഥയെ നമുക്ക് വിലയിരുത്താൻ കഴിയും 1C2|RLjωL2| നിങ്ങൾ L2 തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും കോമൺ സോഴ്സ് ആംപ്ലിഫയറിലെ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു നിയന്ത്രണത്തെക്കുറിച്ചും ഞാൻ പരാമർശിക്കുന്നു ഈ ഇംപെഡൻസ് ആണെങ്കിൽ L2 ന്റെ റിയാക്ടൻസ് വളരെ വലുതാണ് ഈ അവസ്ഥ തൃപ്തികരമാണെങ്കിലും ഇവിടെ വോൾട്ടേജ് അവിടെയുള്ള വോൾട്ടേജിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും അതായത് MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിലെ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അത് അഭികാമ്യമല്ല കാരണം ഒരു MOS ട്രാൻസിസ്റ്റർ ഒരു രേഖീയമല്ലാത്ത ഉപകരണമാണ് കൂടാതെ അതിനു കുറുകെ അനാവശ്യമായി വലിയ വോൾട്ടേജ് സ്വിംഗുകൾ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ വലിയ വോൾട്ടേജ് സ്വിംഗുകൾ ഉണ്ടെങ്കിൽ ഒരു രേഖീയമല്ലാത്ത സ്വഭാവo കാണും അതിനാൽ ഡ്രെയിൻ നോഡിലോ സർക്യൂട്ടിന്റെ ഏതെങ്കിലും നോഡുകളിലോ അനാവശ്യ വോൾട്ടേജ് സ്വിംഗ് നിങ്ങൾക്ക് ആവശ്യമില്ല സ്വിംഗ് പരിധികൾ ലീനിയർ അല്ലാത്ത ഉപകരണങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയുന്ന സിഗ്നലുകളുടെ പരിധികൾ എന്നിവ ചർച്ച ചെയ്തതിനുശേഷം ഇത് കൂടുതൽ വ്യക്തമാകും പക്ഷെ ഡ്രെയിൻ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് കഴിയുന്നത്ര അടുത്ത് വരുന്നത് അഭികാമ്യമാണ് എന്നുള്ള വിവരം ഇപ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് സ്വീകരിക്കാം അതിനുള്ള വ്യവസ്ഥ എന്തായിരുന്നു വാസ്തവത്തിൽ ഇത് ലളിതമായിരുന്നു അതിനുള്ള വ്യവസ്ഥ C21RL അതായത് കപ്പാസിറ്റൻസ് C2 ന്റെ റിയാക്ടൻസ് RL നേക്കാൾ വളരെ ചെറുതായിരിക്കണം അതായത് RL മായി താരതമ്യപ്പെടുത്തുമ്പോൾ C2 ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ദൃശ്യമാകണം അതിലുള്ള മൊത്തം ഇംപെഡൻസല്ല മറിച്ച് അതുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള RL മാത്രം ഈ വ്യവസ്ഥയാണ് നമ്മൾ ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത് അതിനാൽ ഔട്ട്പുട്ട് കറന്റ് io നെ ഒരു ലോഡ് റെസിസ്റ്റൻസ് ആയി എസി കപ്പിൾ ചെയ്യാൻ സാധിക്കും L2 ന്റെ റീക്ടൻസ് RL നേക്കാൾ വളരെ കൂടുതലാണെന്നും C2 ന്റെ റീക്ടൻസ് RL നേക്കാൾ വളരെ ചെറുതാണെന്നും തിരഞ്ഞെടുത്താൽ മുഴവൻ io RL ലേക്ക് പോകുന്നു ഒരേയൊരു പ്രശ്നം ഇൻഡക്റ്ററുകൾ സാധാരണയായി വളരെ വലുതാണ് മാത്രമല്ല അവ സാധാരണയായി ഉപയോഗിക്കാറില്ല എന്നതാണ് ഇൻഡക്റ്ററുകൾ വളരെ വലുതും ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായതിനാൽ നിങ്ങൾ L2 പോലും ഉപയോഗിക്കില്ല പകരം ഒരു റെസിസ്റ്റൻസ് RD ഉപയോഗിക്കുന്നു ഇപ്പോൾ പൂർണ്ണമായ ചിത്രത്തിൽ അടിസ്ഥാനപരമായി ഈ L2 ചില RD ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഇപ്പോൾ ഇത് വീണ്ടും വളരെ പരിചിതമായി തോന്നുന്നു അതിന്റെ ഔട്ട്പുട്ട് ഭാഗം കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ ഉണ്ടായിരുന്നതുപോലെയാണ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ RD ഉണ്ട് C 2 ഉണ്ട് തുടർന്ന് RL ഉം ഉണ്ട് അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് തുല്യമാകുന്നതിന് അല്ലെങ്കിൽ RL വഴിയുള്ള ഔട്ട്പുട്ട് കറന്റ് തുല്യമാകുന്നതിന് C2 തൃപ്തിപ്പെടുത്തേണ്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണ് C2 ഷോർട്ട് സർക്യൂട്ട് ആണ് അല്ലെങ്കിൽ C2 അവിടെ ഉണ്ട് നമുക്ക് 1C2RDRL ആവശ്യമാണ് ഞാൻ പല തവണ സൂചിപ്പിച്ചതുപോലെ ഡ്രെയിൻ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിന് ഏതാണ്ട് തുല്യമാകാൻ നമ്മൾ 1C2RL ആഗ്രഹിക്കുന്നു അതിനാൽ കോമൺ സോഴ്സ് ആംപ്ലിഫയർ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ ഇത് ഉപയോഗിക്കാമെന്നും ചിലപ്പോൾ അത് ഉപയോഗിക്കാമെന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിനാൽ ഇതാണ് സാഹചര്യമെങ്കിൽ C2 ഷോർട്ട് സർക്യൂട്ട് ആയി മാറുന്നു ഇപ്പോൾ ലോഡിലൂടെ ഒഴുകുന്ന യഥാർത്ഥ വൈദ്യുതധാര എന്താണ് ഈ കറന്റ് io ഇവിടെ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ ആവശ്യമുള്ള ഔട്ട്പുട്ടാണ് ഇത് gm1gmR1vi ന് തുല്യമാണ് ഇപ്പോൾ വ്യക്തമായും ഇവ എല്ലാം RL ലേക്ക് ഒഴുകുന്നില്ല C2 ഒരു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് കരുതുകയാണെങ്കിൽ io യുടെ ഒരു ഭാഗം RL ലേക്ക് ഒഴുകും അത് എത്രയാണ് ഈ കറന്റ് ioRDRDRLആയിരിക്കും ഇത് കറന്റ് ഡിവൈഡർ ഫോർമുല മാത്രമാണ് ഇപ്പോൾ ഈ ഭിന്നസംഖ്യ ഒന്നിൽ കുറവായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയ ഇൻഡക്റ്റർ ഉപയോഗിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾ റെസിസ്റ്റർ ഉപയോഗിക്കണം നിങ്ങൾക്ക് റെസിസ്റ്റർ കഴിയുന്നത്ര വലുതാക്കാൻ ശ്രമിക്കാം എന്നാൽ നിങ്ങൾ കോമൺ സോഴ്സ് ആംപ്ലിഫയർ നിർമ്മിച്ചപ്പോൾ ചെയ്ത അതേ പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോകും RD iD വളരെ വലുതാണെങ്കിൽ I0 ഈ ബയസ് കറൻറ് RD യിലൂടെ കടന്നുപോകും സാച്ചുറേഷൻ ആവശ്യമുള്ള ഒരു നിശ്ചിത ഡ്രെയിനേജ് വോൾട്ടേജ് നിലനിർത്തുന്നതിന് സപ്ലൈ വോൾട്ടേജ് വർദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ RD വളരെ വലുതാണെങ്കിൽ സാച്ചുറേഷൻ മേഖലയിൽ ട്രാൻസിസ്റ്റർ നിലനിർത്താൻ VDD വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് RD യ്ക്ക് ചില പരിധികളുണ്ട് അതിനാൽ ഇതിനർത്ഥം ഇത് RL ലേക്ക് പോകുന്ന ഈ വൈദ്യുതധാരയുടെ ഒരു ഭാഗം മാത്രമാണ് ഇത് ശരിയായിരിക്കാം കാരണം ഇത് ഇപ്പോഴും നമ്മൾ കൃത്യമായി നിർണ്ണയിക്കുന്ന ഒരു റെസിസ്റ്റർ അനുപാതമാണ് അതിനാൽ ഔട്ട്പുട്ട് കറന്റ് ഞാൻ ഇതിനെ iL എന്ന് വിളിക്കാംiLgm1gmR1RDRDRLvi RDRDRL അതിനാൽ ഈ നമ്പർ ഇപ്പോഴും ട്രാൻസിസ്റ്ററിന്റെ gm ൽ നിന്ന് സ്വതന്ത്രമാണ് അത് പ്രധാനമാണ് അതിനാൽ ഈ മോഡിൽ പല തവണ വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ്ം ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് RD യും ഇതും ഉണ്ട് അതിനാൽ ഇത് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ പോലെ കാണപ്പെടുന്നു നമുക്ക് കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഉള്ളപ്പോൾ ഒഴികെ നമുക്ക് C3 ഗ്രൌണ്ടിലേക്ക് പോകുന്നു ഇപ്പോൾ നമുക്ക് അധിക റെസിസ്റ്റർ R1 ഉണ്ട് അതിനാൽ ബയാസിംഗ് ഉൾപ്പെടെയുള്ള വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ഇത് പൂർത്തിയാക്കുന്നു എസി കപ്പിൾഡ് കറന്റിന് നിങ്ങൾക്ക് ഒരു ഇൻഡക്റ്റർ ആവശ്യമാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റർ ഉപയോഗിക്കാം തുടർന്ന് ലോഡിലേക്ക് പോകുന്ന വൈദ്യുതധാരയുടെ യഥാർത്ഥ ഭിന്നസംഖ്യയിൽ പെനാൽറ്റി എടുക്കാം പല അവസരങ്ങളിലും ഇത് പോലെ ഉപയോഗിക്കുന്നു സിംഗിൾ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന അടിസ്ഥാന ആംപ്ലിഫയർ ഘടനകളിലൊന്നായ ഈ സർക്യൂട്ടും വ്യാപകമായി ഉപയോഗിക്കുന്നു